ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്നെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ഇതാണ് സ്രോതസ്സുകൾ ബ്രിസ്കോ ഷുലർ ക്ലോസ് Briscoe Schuler and Claus എന്നിവരുടെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് ചിലത് ഉണ്ട് ഗോമസ് മെജിയ ബെൽകിൻ കാർഡി Gomez Mejia Belkin and Cardy എന്നിവരിൽ നിന്നും കുറച്ചുണ്ട് ഞാൻ പുസ്തകം കാണിച്ചുതരാം ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനാൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം ഇത് മൂന്നാം പതിപ്പാണ് നിങ്ങൾക്ക് പിന്നീടുള്ള പതിപ്പ് കണ്ടെത്താനായാൽ നിങ്ങൾക്ക് അത് വാങ്ങാം വിശദാംശങ്ങൾ ഇവിടെയുണ്ട് അതൊരു റൂട്ട്ലെഡ്ജ് പുസ്തകമാണ് കൂടാതെ നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഈ ഭാഗം ഈ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ബിസിനസ്സിന്റെ അന്താരാഷ്ട്രവൽക്കരണം മൊത്തത്തിലുള്ള വീക്ഷണകോണിൽ നിന്ന് നമ്മൾ ഇതുവരെ മനുഷ്യവിഭവശേഷിയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് മനുഷ്യവിഭവശേഷി എന്താണ് അവ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നെല്ലാം നിങ്ങൾക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം അതെല്ലാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുകയായിരുന്നു ഇപ്പോൾ ആഗോള വീക്ഷണകോണിൽ നിന്ന് അഥവാ ഒരു അന്താരാഷ്ട്ര വീക്ഷണകോണിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ബിസിനസ്സിന്റെ അന്താരാഷ്ട്രവൽക്കരണം അന്തർദേശീയ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്തിനുമുൻപ് ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരു ബിസിനസ്സ് നടത്തുക എന്നതിന്റെ അർത്ഥമെന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതിനാൽ എന്തുകൊണ്ടാണ് അതിർത്തി കടന്ന് ബിസിനസ്സ് വികസിച്ചത് വർദ്ധിച്ച യാത്ര ദ്രുതവും വിപുലവുമായ ആഗോള ആശയവിനിമയം എന്നിവയാണ് അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ എടുത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആരെയും വിളിക്കാം നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇവിടെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക് വാട്ട്സ്ആപ്പ് മുതലായവ ഉപയോഗിച്ച് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു ദ്രുതഗതിയിലുള്ള വികസനം പുതിയ സാങ്കേതികവിദ്യയുടെ കൈമാറ്റം ജപ്പാനിൽ കൊറിയയിൽ ചൈനയിൽ യുഎസിൽ സാങ്കേതികവിദ്യ വരുന്നു കൂടാതെ ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശയവിനിമയം നടത്തപ്പെടുന്നു സാങ്കേതിക വിദ്യ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ ചിലപ്പോൾ വർഷങ്ങളും ചിലപ്പോൾ പതിറ്റാണ്ടുകളും എടുത്തിരുന്ന പണ്ടത്തെപോലയല്ല സ്വതന്ത്ര വ്യാപാരം വ്യാപാര നയങ്ങൾ തുറന്നു അതിനാൽ അതിർത്തിക്കപ്പുറത്ത് ബിസിനസ്സ് ചെയ്യുന്നത് എളുപ്പമായി വിദ്യാഭ്യാസം ആളുകൾ കൂടുതൽ കൂടുതൽ വിദ്യാസമ്പന്നരും കൂടുതൽ കൂടുതൽ ബോധവാന്മാരും ആയിത്തീർത്തു ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവർക്കറിയാം കൂടാതെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ അവരുടെ ജോലിയുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു അതിനാൽ അതായത് അവർക്ക് അവരുടെ ഫീൽഡുകളെക്കുറിച്ച് കൂടുതൽ അറിയാം കൂടാതെ ലോകമെമ്പാടും വ്യത്യസ്ത രീതികളിൽ അറിവ് വികസിപ്പിക്കാനോ പ്രയോഗിക്കാനോ അവർക്ക് കഴിയുന്നു ഇതിന് മറ്റൊരു കാരണം കുടിയേറ്റമാണ് കുടിയേറ്റം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് താമസിക്കുക ജീവിക്കുക ജോലി ചെയ്യുക പഠിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ആളുകൾ യാത്ര ചെയ്യുന്നു അതിർത്തിക്കപ്പുറത്തേക്ക് നീങ്ങുന്നു അറിവ് പങ്കിടലാണ് മറ്റൊന്ന് അറിവ് പങ്കിടൽ എന്നതിനർത്ഥം നിങ്ങൾക്ക് അറിയുന്നതെന്തും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നു നമ്മൾ നിരന്തരം ആളുകളോട് നമുക്കറിയാവുന്നതിനെ പറ്റിയും നമ്മൾ പഠിക്കുന്നതിനെ പറ്റിയുമെല്ലാം പറയുന്നു ചെലവുകളിലെ സമ്മർദ്ദം ബിസിനസിന്റെ അന്താരാഷ്ട്രവൽക്കരണത്തിലേക്ക് നയിച്ചു ഇതെല്ലാം ആഗോള ഔട്ട്സോഴ്സിംഗ് പ്രക്രിയയാണ് മറ്റൊന്നാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അത്ര ചെലവേറിയതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബിസ്സിനെസ്സ് മാറ്റുക പുതിയ വിപണികൾക്കായി തിരയുകയാണ് മറ്റൊന്ന് നിങ്ങളുടെ സ്വന്തം ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിനുള്ളിലെ വിപണികളെ നിങ്ങൾ പൂർണമായി വിനിയോഗിച്ച് കഴിഞ്ഞു കൂടാതെ നിങ്ങൾ വ്യത്യസ്ത മേഖലകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വികസിപ്പിച്ചതെന്തും ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ അത് ഇപ്പോഴും പ്രായോഗികമാണ് അതിനാൽ നിങ്ങൾ അത് എടുക്കുന്നു കൂടാതെ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൂടുതൽ ഉപയോഗപ്രദമായ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് ഇതുവരെ ഉപയോഗിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾ പുതിയ വിപണികൾക്കായി തിരയും സംസ്കാരങ്ങളുടെ ഏകീകൃതവൽക്കരണം ഹോമോജനൈസേഷൻ എന്നാൽ സമാനത സ്ഥാപിക്കൽ ഏകജാതി എന്നാൽ വിവിധ വ്യത്യസ്തമായ പാരാമീറ്ററുകൾക്കനുസരിച്ച് സമാനമായ ഏകതാനമായ മാർഗങ്ങൾ അതിനാൽ നമ്മൾ സംസ്കാരങ്ങളുടെ ഏകീകൃതവൽക്കരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ പ്രധാനമായും സമാന സംസ്കാരങ്ങളുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു അതായത് സമാനമായ സംസ്കാരങ്ങളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കുറിച്ച് ഉദാഹരണത്തിന് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ കോക്ക് നാട്ടിൽ അത്ര എളുപ്പത്തിൽ ലഭ്യമായിരുന്നില്ല ലഭ്യമായിരുന്നത് ക്യാമ്പായിരുന്നു ഞാൻ ഓർക്കുന്നു കാമ്പകോള നിങ്ങൾക്കറിയാമോ കൊക്കകോള അപ്പോൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കപ്പെട്ടിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ടില്ലയിരുന്നു കൂടാതെ കാമ്പ കോള പ്രാദേശിക ബ്രാൻഡായിരുന്നു ക്ഷമിക്കണം കൊക്കകോളയുടെയും പെപ്സിയുടെയും പ്രാദേശിക തത്തുല്യമായതായിരുന്നു കൂടാതെ ഞങ്ങളുടെ മാതാപിതാക്കൾ കൊക്കകോള രുചിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ കാമ്പ കോള കാമ്പ ഓറഞ്ച് കാമ്പ നാരങ്ങ മുതലായവയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ അത് കൊക്കകോള അല്ലായിരുന്നു അതായത് ഞങ്ങൾക്ക് അത് അറിയാമായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ ഹോളിവുഡ് സിനിമകളിലൂടെ അത് കണ്ടിട്ടുണ്ട് പടിഞ്ഞാറ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ കാണുന്ന മറ്റ് സിനിമകൾ മറ്റ് വാർത്തകൾ മറ്റ് രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതിലുടെ കാണാറുണ്ട് പക്ഷേ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നില്ല ഞങ്ങളുടെ ജീവിതരീതികൾ വ്യത്യസ്തമായിരുന്നു ഞങ്ങൾ സംസാരിച്ച രീതി വ്യത്യസ്തമായിരുന്നു ഞങ്ങൾ കഴിച്ച രീതി വ്യത്യസ്തമായിരുന്നു ഇക്കാലത്ത് ഒരു ചെറിയ പട്ടണത്തിൽ അതുപോലെ ഉൾപ്രദേശങ്ങളിൽ പോലും നിങ്ങൾക്ക് ഒരു പിസ്സ ഷോപ്പ് കണ്ടെത്താൻ കഴിയും അതിനാൽ പിസ്സയും ബർഗറും ഇവയെല്ലാം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കോക്കും പെപ്സിയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം മാത്രം നൽക്കുകയാണ് സോഡ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള വായു നിറച്ച പാനീയങ്ങൾ വളരെ ജനപ്രിയമാണ് പ്രാദേശികമായി ലഭ്യമായ മാർബിൾ പാനീയങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു മാർബിളിനെ ഹിന്ദിയിൽ കാഞ്ച എന്ന് വിളിക്കുന്നു അത് ഒരു ഉരുണ്ട ഗ്ലാസ് മാർബിൾ ആയിരുന്നു ഒരു ഗ്ലാസ് മാർബിളിന്റെ സഹായത്തോടെ അടച്ചുവച്ച നിറച്ച കുപ്പികൾ അതിനാൽ വിപണിയിൽ ഇവ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് അപൂർവ്വമായി മാത്രമാണ് കാണുന്നത് പക്ഷേ ഇക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവയെല്ലാം പാക്കറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ ചിപ്സ് വേഫറുകൾ അതും ഇതുമെല്ലാം ഇവയെല്ലാം പെർക്ലേറ്റ് ചെയ്യുന്നു അതിനാൽ എല്ലാവരും ഒരേ തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതാണ് സംസ്കാരത്തിന്റെ ഏകീകൃതവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് നാം കാര്യങ്ങൾ ചെയ്യുന്ന രീതി അതിരുകൾക്കപ്പുറത്ത് പോലും വളരെ സാമ്യമുള്ളതായി തീർന്നു ഇ കൊമേഴ്സും ഇലക്ട്രോണിക് വാണിജ്യവും ബിസിനസ്സിന്റെ അന്താരാഷ്ട്രവൽക്കരണത്തിലേക്ക് നയിച്ചു മറ്റൊരു ആശയം ഇന്റർനാഷണൽ ഓറിയന്റേഷൻ ആണ് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നമ്മൾ എങ്ങനെ നിലകൊള്ളുന്നു ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നെല്ലാം ഇന്റർനാഷണൽ ഓറിയന്റേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര ഓറിയന്റേഷന്റെ ഒരു വഴി അഥവാ ഒരു വശം എത്നോസെൻട്രിസം ആണ് ഞാനാണ് ഏറ്റവും മികച്ചത് എന്റെ രാജ്യം ഏറ്റവും മികച്ചതാണ് എന്റെ സമൂഹമാണ് ഏറ്റവും മികച്ചത് എന്റെ കമ്മ്യൂണിറ്റി ഞാൻ എന്ത് ചെയ്താലും കേന്ദ്രീകരിക്കപ്പെടേണ്ടത് എന്റെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും മികച്ച താൽപ്പര്യങ്ങൾ മാത്രമാണ് ഇതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത് അതിനാൽ എന്റെ വംശീയതക്ക് മറ്റെല്ലാറ്റിനേക്കാളും മുൻഗണന നൽകുന്നു അതിനാൽ അന്താരാഷ്ട്രവൽക്കരണത്തിനോ ആഗോളവൽക്കരണത്തിനോ നമ്മൾ മുൻഗണന നൽകുന്നില്ല എന്നാണ് ഇത് അർത്ഥമാകുന്നത് ഇതിന്റെ മറ്റൊരു വശം പോളിസെൻട്രിസം അല്ലെങ്കിൽ റീജിയോസെൻട്രിസം ആണ് വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകും ജിയോസെൻട്രിസം ഭൂമിശാസ്ത്രപരമായ അതിരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എച്ച്ആർഎമ്മിന്റെ അന്താരാഷ്ട്രവൽക്കരണം എല്ലാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെയും പഠനവും പ്രയോഗവുമാണ് IHRM കാരണം അവ മാനവവിഭവശേഷി സംരംഭങ്ങളിൽ ആഗോള പരിതസ്ഥിതിയിൽ മാനേജുമെന്റ് പ്രക്രിയയെ സ്വാധീനിക്കുന്നു അതിനാൽ അന്താരാഷ്ട്ര മാനവ വിഭവശേഷി മാനേജുമെന്റ് എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിലധികം രാജ്യങ്ങളിലുള്ള സംഘടനകളിലെ മാനവവിഭവശേഷി മാനേജ്മെന്റിന്റെ മാനവ വിഭവശേഷി തത്വങ്ങളുടെ പ്രയോഗമാണ് എച്ച്ആർഎം നും മൾട്ടിനാഷണൽ എന്റർപ്രൈസസ്നുമുള്ള വെല്ലുവിളികൾ ബഹുരാഷ്ട്ര സംരംഭങ്ങൾ എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സംഘടനകളാണ് അതിലെ ചില വെല്ലുവിളികൾ ഒന്ന് എച്ച്ആർ പ്രവർത്തനത്തിനുള്ളിൽ ഒരു ആഗോള മാനസികാവസ്ഥ വികസിപ്പിക്കുക എന്നതാണ് ഒരു രാജ്യത്തോടല്ല അവർ ഇടപെടുന്നതെന്ന് ഈ സംഘടനയിലെ ആളുകൾ മനസ്സിലാക്കണം എത്നോസെൻട്രിക് ആദർശങ്ങൾ ഒരു ആഗോള മൾട്ടിനാഷണൽ കമ്പനിയിൽ ആഗോള അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനിയിൽ പ്രയോഗിക്കാൻ കഴിയില്ല എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഒരേസമയം പ്രാദേശിക പ്രശ്നങ്ങളോടും ആവശ്യകതകളോടും പ്രതികരിക്കുമ്പോൾ തന്നെ ആഗോളതലത്തിൽ മത്സരിക്കുന്നതിനുള്ള പുതിയ ആവശ്യകതകളോടെ കോർ എച്ച്ആർ പ്രക്രിയകളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയുന്നത് എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് എച്ച്ആർ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ആദ്യത്തെ വെല്ലുവിളി ഇത് മാതൃ കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ മാതൃരാജ്യത്തെക്കുറിച്ചോ മാത്രമല്ല ആതിഥേയ രാജ്യത്തെക്കുറിച്ചും കൂടിയാണ് അതിനാൽ എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആഗോളതലത്തിൽ മത്സരിക്കേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ പ്രാദേശിക ആവശ്യങ്ങൾ കൂടി പരിപാലിക്കുകയും വേണം ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രാദേശിക പശ്ചാത്തലത്തിലാണ് ഓഫീസ് ഉദാഹരണത്തിന് ഫിലിപ്പീൻസ് അല്ലെങ്കിൽ തായ്വാൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിംഗ്ഡം എന്നിവിടങ്ങളിലെ ഒരു ചെറിയ പട്ടണത്തിലാണെന്ന് കരുതുക കൂടാതെ കമ്പനിക്ക് ലോകമെമ്പാടും അതിന്റെ ഓഫീസുകൾ ഉണ്ടായിരിക്കാം കമ്പനി ഇന്ത്യയിലായിരിക്കാം പക്ഷേ യുകെയിൽ ഒരു ഓഫീസ് തായ്വാനിൽ ഒരു ഓഫീസ് ഓസ്ട്രേലിയയിൽ ഒരു ഓഫീസ് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഓഫീസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ഓഫീസ് അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും ഉസ്ബെക്കിസ്ഥാനിലെ ഓഫീസിന് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും ആ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും ഒരു ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉദാഹരണത്തിന് യുണൈറ്റഡ് കിംഗ്ഡത്തിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും അതുപോലെ കെനിയയിലെ ഒരു ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും ഓസ്ട്രേലിയയിലെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് ഒപ്പം സംഘടനയുടെ ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അതിനാൽ ഇവയ്ക്കിടയിൽ നിങ്ങൾ എങ്ങനെ സന്തുലിതാവസ്ഥ കൈവരിക്കും എങ്ങനെ നിലനിർത്തും എങ്ങനെ എല്ലാവരേയും സംതൃപ്തരാക്കും ഇത് അന്താരാഷ്ട്ര ഹ്യൂമൻ റിസോഴ്സ് മാനേജരുടെ ഒരു വലിയ വെല്ലുവിളിയാണ് എച്ച്ആർ പ്രവർത്തനത്തിനുള്ളിൽ ആഗോള ശേഷികളും കഴിവുകളും മെച്ചപ്പെടുത്തുന്നു ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങൾ എങ്ങനെയാണ് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എച്ച്ആർ സ്റ്റാഫിനെ പ്രാപ്തരാക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജീവനക്കാരുമായി ഇടപഴകുന്നതിൽ ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാഫിന്റെ കഴിവുകൾ നിങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കും ഇപ്പോൾ ഇതാണ് ഡയഗ്രം ഇത് ഒരു സ്ലൈഡിൽ ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാൽ ഈ പുസ്തകത്തിലെ ഈ ഡയഗ്രം ഞാൻ ഇവിടെ കാണിക്കുന്നു ഇപ്പോൾ ക്യാമറക്ക് സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായി ഈ ഡയഗ്രം അൽപ്പം സൂം ചെയ്യാമോ ചെറുതായി അൽപ്പം സൂം ഔട്ട് ചെയ്യുക നന്ദി അതെ ഇത് മതി അതിനാൽ നിങ്ങൾ ഇത് കാണുന്നു ശരി ഇതാണ് അന്താരാഷ്ട്ര മാനവ വിഭവശേഷി മാനേജ്മെന്റ് അതിനാൽ നിങ്ങൾ മാതൃരാജ്യമായ A രാജ്യത്താണ് ഫേം X മാതൃരാജ്യത്താണ് ഫേം X മാതൃരാജ്യത്തെ പൌരന്മാരെ C രാജ്യത്തേക്ക് അയയ്ക്കുന്നു ഫേം Xന്റെ ഒരു ഉപസ്ഥാപനമാണ് X1 കൂടാതെ ഈ മാതൃരാജ്യ പൌരന്മാർ ആതിഥേയ രാജ്യക്കാരുമായി സംവദിക്കുന്നു നിങ്ങൾക്ക് മറ്റേ സ്ഥലത്തുള്ള സ്റ്റാഫ് മാത്രം ഉണ്ടായിരിക്കാൻ കഴിയില്ല ആ പ്രദേശത്തെ ജീവനക്കാരുമുണ്ട് അതിനാൽ ഈ സി രാജ്യത്തെ ആളുകൾ ആതിഥേയ രാജ്യത്തിലെ പൌരന്മാരുമായി പോയി സംവദിക്കുക ഇൻപാട്രിയേറ്റുകൾ ഈ ആളുകൾ അവിടെ പോകുന്നു അവർ അവരുടെ ജോലി ചെയ്യുന്നു അവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നു കൂടാതെ നിങ്ങൾക്ക് എക്സ് കമ്പനിയിലും എക്സ്പ്പാട്രിറ്റസ് ഉണ്ടാകാം നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാകാം അതിനാൽ ഇത് മൂന്നാമത്തെ രാജ്യത്തെ പൌരനാണ് ഓഫീസ് ഇല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തെ കഴിവുള്ള ആളുകൾ ഇവിടെ വരുന്നു അതിനാൽ നിങ്ങൾക്ക് എക്സ്പ്പാട്രിറ്റസ് ഉണ്ടാകും നിങ്ങൾക്ക് നയങ്ങൾ ഉണ്ടാകും ആതിഥേയ രാജ്യത്തിന്റെയും മാതൃരാജ്യത്തിലെ പൌരന്മാരുടെയും ഇൻപാട്രിയേറ്റുകളുടെയും മറ്റ് രാജ്യക്കാരുടെയും മിശ്രിതമായിരിക്കും സംസ്കാരം കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബഹുരാഷ്ട്ര ആസ്ഥാനം ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഇത് നോക്കാം Y എന്ന സ്ഥാപനം ആ മാതൃരാജ്യത്തിനുള്ളിലെ മറ്റൊരു സ്ഥാപനമാണ് ഇത് ഒരു വിദേശ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണ് കൂടാതെ ഫേം Z ഒരു ആഭ്യന്തര സ്ഥാപനമാണ് ഇത് മാതൃരാജ്യത്തെ ഒരു വ്യവസായമാണ് ഇപ്പോൾ രാജ്യം ബി മറ്റൊരു രാജ്യമാണ് അത് ഈ മാതൃരാജ്യത്തിന് പുറത്താണ് അവിടെ Y സ്ഥാപനം ആളുകളെ അയയ്ക്കുന്നു ഇത് ഒരു വിദേശ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണ് അത് അതിന്റെ ആളുകളെ ഈ രാജ്യത്തേക്ക് അയയ്ക്കുന്നു കൂടാതെ മാതൃരാജ്യ പൌരന്മാർ ഈ രാജ്യത്ത് നിന്ന് ഫേം Y ലേക്ക് വരുന്നു അതിനാൽ ഈ ആളുകൾ Y യുടെ സംസ്കാരത്തിലേക്ക് സംഭാവന ചെയ്യുന്നു B രാജ്യത്ത് നിന്നുള്ള ആളുകൾ Y സ്ഥാപനത്തിലേക്ക് വരുന്നു ഇവിടെ അതായത് സ്വദേശിയും വിദേശികളും ആയ പൌരന്മാരുണ്ട് അതിനാൽ മാതൃരാജ്യത്തിനുള്ളിൽ നിങ്ങൾക്ക് പൌരന്മാരുണ്ടാകാം നിങ്ങൾക്ക് ആ രാജ്യത്ത് ജനിച്ച പ്രൊഫഷണലുകൾ ഉണ്ടായിരിക്കാം വിദേശത്തു ജനിച്ച പ്രൊഫഷണലുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം രാജ്യം എ യിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ അത് X എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്നു ഫേം Zന്റെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്നു അത് Y1 ന്റെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്നു അതുപോലെ മൂന്നാം രാജ്യക്കാർ കമ്പനി X1 ലേക്ക് സംഭാവന ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരോ ആകാം ഫേം Xന്റെ ഉപസ്ഥാപനമായ ഫേം X1 ഫേം Y1 രാജ്യത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന Y യുടെ ഒരു ഉപസ്ഥാപനമാണ് അതിനാൽ ഈ ആളുകൾ ഇവിടെ വരുന്നു മൂന്നാം രാജ്യ പൌരന്മാർ Y എന്ന സ്ഥാപനത്തിലേക്ക് കുടിയേറുന്നു അതിനാൽ അവർ അവിടെ സംഭാവന ചെയ്യുന്നു ഇതൊരു ആഭ്യന്തര സ്ഥാപനമാണ് അതിൽ നിങ്ങൾക്ക് കുടിയേറ്റക്കാർ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്ന സ്വദേശികളും വിദേശികളുമായ പൌരന്മാരും ഉണ്ടായിരിക്കാം കൂടാതെ ഒരു ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ വ്യവസായത്തിനുള്ളിൽ നിങ്ങൾ ഫേം X നോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ Y യിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് Z ൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ഫേം Y Z എന്നിവയുമായും അവയുടെ അനുബന്ധ സ്ഥാപനങ്ങളുമായും മത്സരിക്കേണ്ടതുണ്ട് കൂടാതെ ഈ മുഴുവൻ സങ്കീർണ്ണ പ്രവർത്തനവും നിങ്ങൾ അറിയേണ്ടതുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ വളരെ വളരെ സങ്കീർണ്ണമാണ് നമ്മൾ ധാരാളം വിദേശ പൌരന്മാരെ ജോലിയിൽ നിയമിക്കുന്ന മേഖലകളിലൊന്ന് എയർലൈൻ വ്യവസായമാണെന്ന് മുൻ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗണ്യമായ എണ്ണം പൈലറ്റുമാരുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള എയർലൈനുകളിൽ കൂടാതെ ഈ മോഡൽ അത്തരം സാഹചര്യങ്ങളെ സംബന്ധിക്കുന്നതാണ് തീർച്ചയായും മറ്റ് വ്യവസായങ്ങളും ഉണ്ടാകും അതിനാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺ എന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ഈ മുഴുവൻ കലർപ്പും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുന്നു അവരുടെ താൽപ്പര്യങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് നിങ്ങൾ വളരെ ഗൌരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് IHRM ന്റെ വികസനം രാജ്യം തിരഞ്ഞെടുക്കൽ എന്നിവ എങ്ങനെയാണ് ചെയുന്നത് അതിനാൽ നിങ്ങൾ ഈ രാജ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എവിടെ നിന്ന് ജീവനക്കാരെ ലഭിക്കും അല്ലെങ്കിൽ ഓഫീസ് എവിടെ വയ്കാം തുടർന്ന് അന്താരാഷ്ട്ര ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫംഗ്ഷനുകളുടെ വികസനത്തിൽ ആഗോള സ്റ്റാഫിംഗ് ഒരു ആശങ്കയാണ് റിക്രൂട്ട്മെന്റും തിരഞ്ഞെടുപ്പും ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകൾ നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക അത് നന്നായി ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നാത്ത ആളുകളെ എങ്ങനെ ഫിൽട്ടർ ചെയ്യും നഷ്ടപരിഹാരം മറ്റൊരു വിഷയമാണ് മാതൃരാജ്യത്തിന്റെയും നടപടിക്രമങ്ങളുടെയും നയങ്ങളുടെയും സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തൽ മറ്റൊരു പ്രശ്നമാണ് കൂടാതെ നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ മിക്കവാറും സംസാരിക്കും അന്തർദേശീയവും ആഭ്യന്തരവുമായ എച്ച്ആർഎം തമ്മിലുള്ള വ്യത്യാസങ്ങൾ അന്താരാഷ്ട്ര എച്ച്ആർഎമ്മിൽ കൂടുതൽ എച്ച്ആർ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് കാഴ്ചപ്പാടിൽ വിശാലമായ വൈദഗ്ദ്ധ്യം അന്താരാഷ്ട്ര മാനവ വിഭവശേഷി മാനേജ്മെന്റിൽ ആവശ്യമാണ് അത് ഒരു തരത്തിലുള്ള പ്രവർത്തനമാണ് ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടൽ ഉണ്ട് കാരണം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു നിങ്ങൾ അവരുടെ ക്ഷേമം നോക്കണം അവരുടെ താമസം അവരുടെ ആരോഗ്യ സൌകര്യങ്ങൾ അവരുടെ വിസകൾ അവരുടെ മൈഗ്രേറ്ററി സ്റ്റാറ്റസ് അവരുടെ പ്രാദേശിക നിയമങ്ങൾ പാലിക്കൽ പ്രാദേശിക സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടൽ ആചാരങ്ങൾ മുതലായവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ആവശ്യങ്ങളുള്ള ജീവനക്കാരുടെ വളരെ വിപുലമായ ഒരു മിശ്രിതം മാനേജ് ചെയുന്നു അടിയന്തര സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നാൽ പ്രാദേശിക ജീവനക്കാരുടെ കാര്യത്തിൽ ഇത് സംഭവിക്കില്ല അതിനാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ അപകടസാധ്യതയുണ്ട് ലളിതമായ കാരണത്താൽ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു കൂടാതെ അവരുടെ ജോലിയും അവരുടെ പ്രവർത്തനങ്ങളുടെ ശരിതെറ്റുകളോ എല്ലാം അവർ ഉൾപ്പെടുന്ന രാജ്യത്തിന്റെ നിയമങ്ങളാൽ ഭാഗികമായി നിയന്ത്രിക്കപ്പെടാം അതിനാൽ അവരുടെ ദേശീയത അവർ എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ ഇടപെടണം നയങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നിവയിൽ സ്വാധീനം ചെലുത്താം അന്താരാഷ്ട്ര സംഘടനയുടെ തന്ത്രവും ഘടനയും സൃഷ്ടിക്കുന്നു ആഗോള പരിതസ്ഥിതിയിൽ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായ ചില അവസരങ്ങൾ പ്രാദേശിക വിപണിയിലെ വ്യത്യാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ് ആദ്യ അവസരം പ്രാദേശിക വിപണികളും നിങ്ങളുടെ മാതൃരാജ്യത്തെ വിപണിയും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങളുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാം അളവിന്റ് ആഗോള സമ്പദ്വ്യവസ്ഥയെ ചൂഷണം ചെയ്യുന്നു വ്യാപ്തിയുടെ ആഗോള സമ്പദ്വ്യവസ്ഥയെ ചൂഷണം ചെയ്യുന്നു അതിനാൽ അളവിന്റ് ആഗോള സമ്പദ്വ്യവസ്ഥ എന്നതിനർത്ഥം ഒരേ ഉൽപ്പന്നം വലിയ സംഖ്യകളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് വ്യാപ്തിയുടെ ആഗോള സമ്പദ്വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലിയതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഉദാഹരണത്തിന് ഇന്ത്യയിലെ ബർഗറിൽ ഒരു ഉരുളക്കിഴങ്ങ് പാറ്റി ഉണ്ട് വെജി ബർഗർ യഥാർത്ഥത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് പാറ്റിയാണ് അതിനാൽ അതൊന്നും ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചിക്കൻ ടിക്ക ബർഗർ കഴിക്കാം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒന്നാണ് ആചാരി ചിക്കൻ ബർഗർ അതിനാൽ ഇത് പ്രാദേശിക രുചിക്ക് വളരെ വളരെ അനുയോജ്യമായ സാധനങ്ങളുള്ള ഒരു ബർഗറാണ് ഒരു ഗാലപീനോ ബർഗർ ഇവിടെ കൂടുതൽ വിലമതിക്കപ്പെടണമെന്നില്ല ഉദാഹരണത്തിന് ഒരു സാൽമൺ ബർഗർ ഇന്ത്യയിൽ വിലമതിക്കില്ലായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ സാൽമൺ കണ്ടെത്താൻ പോലും കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ചിക്കൻ കണ്ടെത്താനാവും നിങ്ങൾക്കത് ഇവിടെ ലഭിക്കും അതിനാൽ ഈ കാര്യങ്ങൾ ഇത് വ്യാപ്തിയുടെ ആഗോള സമ്പദ്വ്യവസ്ഥയെ ചൂഷണം exploiting global economies of scope ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾക്കറിയാമോ നിങ്ങൾ നിങ്ങളുടെ ബർഗറിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പ്രാദേശിക ഭക്ഷണങ്ങളും വിളമ്പാൻ തുടങ്ങാം ഉദാഹരണത്തിന് ഇന്ത്യൻ ഉപസ്ഥാപനങ്ങളിൽ വിദേശ പാശ്ചാത്യ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ ബിരിയാണി വിളമ്പുന്നത് അതിനാൽ അത് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ വികാസമാണ് അല്ലെങ്കിൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ചൂഷണമാണ് പ്രാദേശിക വിപണികളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു പ്രവർത്തനങ്ങൾക്കും വിഭവങ്ങൾക്കുമായി മികച്ച ലൊക്കേഷനുകളിലേക്ക് ടാപ്പുചെയ്യുന്നു നിങ്ങൾക്കറിയാമോ ആഗോളവൽക്കരണം നിങ്ങൾക്ക് ലോകത്തെവിടെയും ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥലം തിരയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നു ലൊക്കേഷനുകൾക്കിടയിൽ പരമാവധി അറിവും അനുഭവ കൈമാറ്റവും നിങ്ങൾ ഒരു കാര്യം ഒരിടത്ത് നിന്ന് പഠിക്കുന്നു പിന്നെ നിങ്ങൾ പോയി അത് എടുത്ത് മറ്റൊരു സ്ഥലത്ത് പ്രയോഗിക്കുന്നു ബഹുരാഷ്ട്ര സംരംഭങ്ങൾ എങ്ങനെയാണ് വികസിക്കുന്നത് ഇവിടെത്തെ ആദ്യപടി പരിണാമമാണ് അതിനാൽ ഭൂമിശാസ്ത്രപരമായ വ്യാപനം ഇവിടെ ആദ്യപടിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അത് സാധ്യമാണ് ക്ഷമിക്കണം ബഹുരാഷ്ട്ര സംരംഭങ്ങൾ എങ്ങനെ വികസിക്കുന്നു അവ ആദ്യം ആഭ്യന്തര വിപണികളിൽ സ്ഥാപിക്കപ്പെടുന്നു തുടർന്ന് അവർ അന്താരാഷ്ട്ര വിപണികളിലേക്ക് നീങ്ങുന്നു അതിനർത്ഥം അവർ അവരുടെ സ്വന്തം ഓർഗനൈസേഷനിൽ തന്നെ പ്രധാന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുന്നു അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മാതൃരാജ്യത്തിന് പുറത്ത് വിപണനം ചെയ്യുന്നു പക്ഷേ ഈ വസ്തുക്കൾ നിർമ്മിക്കുന്നത് മാതൃരാജ്യത്താണ് അവർക്ക് അവിടെ ഓഫീസുകളില്ല അതിനാൽ മാതൃരാജ്യത്ത് കേന്ദ്രീകൃതമായി എല്ലാം നിയന്ത്രിക്കപ്പെടുന്നു അതാണ് ആഭ്യന്തരവും അന്തർദേശീയവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മൾട്ടിനാഷണൽ ആകുമ്പോൾ നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കുന്നു പക്ഷേ അവരെല്ലാം ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് അതിനാൽ അത് ബഹുരാഷ്ട്രമാണ് അപ്പോൾ നിങ്ങൾ ആഗോളതലത്തിലേക്ക് പോകുന്നു അതിനർത്ഥം നിങ്ങൾ ഒരേ കാര്യം അതേ രീതിയിൽ സേവിക്കുന്നു എന്നാണ് ചില ചെറിയ പരിഷ്കാരങ്ങൾ ചെയ്തു വരുന്നു ചില ചെറിയ അഡാപ്റ്റേഷനുകൾ ചെയ്തുവരുന്നു അതിനാൽ നിങ്ങൾ സമ്പദ്വ്യവസ്ഥയെ വികസിപ്പിക്കുക വ്യാപ്തിയുടെ സമ്പദ്വ്യവസ്ഥയെ ഇത്രയധികം വിപുലീകരിക്കാൻ നിങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ വ്യാപ്തിയുടെ സമ്പദ്വ്യവസ്ഥയെ അത്രമാത്രം ചൂഷണം ചെയ്യുന്നില്ല മൾട്ടിനാഷണലിൽ ഇത് സ്കെയിൽ മാത്രമാണ് ആഗോളതലത്തിൽ ഇതിന് വ്യാപ്തി കുറവാണ് നമ്മൾ അന്തർദേശീയതയിലേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു മറ്റൊരു രാജ്യത്ത് മറ്റൊരു കാര്യം ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഓട്ടോമോട്ടീവ് നിർമ്മാതാവാണ് അതിനാൽ ഭൂമധ്യരേഖാ രാജ്യങ്ങളിൽ നിങ്ങളുടെ സ്ഥാപനം മോട്ടോർ ഘടിപ്പിച്ച ഇരുചക്രവാഹനങ്ങൾ ആയിരിക്കാം നിർമ്മിക്കുന്നത് കൂടാതെ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ നിങ്ങളുടെ നിർമ്മാണം മോട്ടോർ ഘടിപ്പിച്ച ഇരുചക്ര വാഹനങ്ങൾ സ്കൂട്ടറുകൾ മോട്ടോർ ബൈക്കുകൾ മോപ്പഡുകൾ മുതലായവ ആകാം കൂടാതെ നിങ്ങൾ അവ വിൽക്കുന്നു കൂടാതെ യൂറോപ്പിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിങ്ങൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിങ്ങൾ നിർമ്മിക്കുന്നത് എസ്യുവികൾ സബർബൻ വാഹനങ്ങൾ എന്നിവയായിരിക്കാം അതിനാൽ നിങ്ങൾ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് ഒരേ കമ്പനിയിലാണ് എന്നാൽ നിങ്ങൾ മോട്ടറൈസ്ഡ് വാഹനങ്ങളുടെ വലിയ വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയാണ് അതിനാൽ ഇത് ഇനി ഇരുചക്രവാഹനം മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് ഫോർ വീലറുകൾ നിർമ്മിക്കാം പക്ഷേ ഒരേ ബ്രാൻഡിന് കീഴിലാണ് അതിനാൽ അത് അന്തർദേശീയമായി പോകുന്നു പിന്നെ കയറ്റുമതി വഴിയുള്ള അന്താരാഷ്ട്രവൽക്കരണം ആണ് മറ്റൊന്ന് അതിനാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബഹുരാഷ്ട്ര സംഘടനയെ വികസിപ്പിക്കുക തുടർന്ന് നിങ്ങൾ കയറ്റുമതിയിലൂടെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നു തുടർന്ന് നിങ്ങൾ അന്താരാഷ്ട്ര ഡിവിഷനിലേക്കോ ആഗോള ഉൽപ്പന്ന വിഭാഗത്തിലേക്കോ നീങ്ങുന്നു തുടർന്ന് നിങ്ങൾ ബഹു രാജ്യ അല്ലെങ്കിൽ ബഹു ആഭ്യന്തര തന്ത്രത്തിലേക്ക് നീങ്ങുന്നു പിന്നെ പ്രാദേശികവൽക്കരണം നിങ്ങൾ ഘട്ടം ഘട്ടമായി വ്യത്യസ്ത പ്രദേശങ്ങൾ ഉള്ളതിനാൽ വ്യത്യസ്ത കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു പിന്നെ നിങ്ങൾക്ക് ഒരു ആഗോള സ്ഥാപനമുണ്ടാകും അന്തർദേശീയ സ്ഥാപനമാണ് മറ്റൊന്ന് പിന്നെ അടുത്ത ഘട്ടം ആഗോളതലത്തിൽ ജനിക്കുക എന്നതാണ് അതായത് ഒരു സ്ഥാപനം സ്ഥാപിച്ചു നിങ്ങൾ ഒരു ആശയത്തോടെ ഒരു സ്ഥാപനം ആരംഭിക്കുക അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഒരേസമയം ഒരു സ്ഥാപനം ആരംഭിക്കുക അതിനാൽ അത് ആഗോളതലത്തിൽ ജനിച്ച സ്ഥാപനമാണ് എന്ന് പറയാം നിങ്ങൾ ആരംഭിക്കുന്ന ആഗോളതലത്തിലെ സംയോജിത സംരംഭങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തുകയും അവയെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ബഹുരാഷ്ട്ര സംരംഭങ്ങളുടെ വികസനത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളാണിവ അന്താരാഷ്ട്ര ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള രീതിയുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ എങ്ങനെയാണ് ലോകത്തിൽ അന്താരാഷ്ട്ര ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നത് ലൈസൻസിംഗിലൂടെയും സബ് കോൺട്രാക്റ്റിംഗിലൂടെയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലോകപ്രശസ്ത ബ്രാൻഡിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നു നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നിങ്ങളത് ആരംഭിക്കുന്നു ഔട്ട്സോഴ്സിംഗ് എന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് എടുക്കുകയും നിങ്ങളുടെ മാതൃരാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്ത് കൊണ്ടുപോകുകയും ചെയ്യുന്നതാണ് ഔട്ട്സോഴ്സിംഗ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് നിങ്ങളുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ വിലകുറഞ്ഞ തൊഴിലാളികൾ ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധ തൊഴിലാളികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മികച്ച സൌകര്യങ്ങൾ എന്നിവ കണ്ടെത്താനാക്കുന്ന മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ അത് എടുക്കുന്നു അതാണ് ഔട്ട്സോഴ്സിംഗ് ഓഫ് ഷോറിംഗ് എന്നത് നിങ്ങളുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് മാറ്റുന്നതാണ് അതിനാൽ നമ്മൾക്ക് ഇന്ത്യയെപ്പോലെ വിലകുറഞ്ഞ ലൊക്കേഷനുകൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഓർഗനൈസേഷനുകൾ ലോകത്ത് ഉണ്ട് അതിനാൽ അത് ഓഫ് ഷോറിംഗ് ആണ് നിങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രീൻഫീൽഡ്സ് ഉണ്ടായിരിക്കും പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറിയുടെ വിവിധ മാർഗങ്ങൾ ഒന്ന് ഗ്രീൻഫീൽഡിൽ ആണ് ഇതിനർത്ഥം ആദ്യം മുതൽ സബ്സിഡിയറി സൌകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി നിങ്ങൾ ഒരു തുറന്ന ഫീൽഡ് നേടുന്നു നിങ്ങൾ പറയും ശരി ഞാൻ എവിടെയെങ്കിലും ഒരു ഫാക്ടറി തുറക്കും കൂടാതെ നിങ്ങൾക്ക് ആകെയുള്ളത് ഭൂമിയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറി രൂപകൽപ്പന ചെയ്യുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സജ്ജീകരണം നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു കൂടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ഗ്രീൻഫീൽഡ് സമീപനം നിങ്ങൾ കെട്ടിടങ്ങൾ വാങ്ങുക എന്നതാണ് ബ്രൌൺഫീൽഡ് സമീപനം കൂടാതെ ആ കെട്ടിടങ്ങൾക്കുള്ളിലെ സജ്ജീകരണം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുന്നു നിങ്ങൾ നിലവിലുള്ള സംരംഭങ്ങൾ സ്വന്തമാക്കുകയും നിങ്ങൾ അവയെ വേർപെടുത്തുകയോ അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുകയോ ചെയ്യുക എന്നതാണ് അത് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗം അതിനാൽ ഇത് പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറി തന്ത്രമാണ് ഏറ്റെടുക്കലും ലയിപ്പിക്കലും രണ്ട് കമ്പനികൾ ഒരുമിച്ച് ചേർക്കുക എന്നതാണ് ലയിപ്പിക്കുക എന്നതിനർത്ഥം ഏറ്റെടുക്കലുകൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ കൂടുതൽ ശക്തമായ കമ്പനിയാണ് നിങ്ങൾ ദുർബലമായ ഒരു കമ്പനിയെ ഏറ്റെടുക്കുന്നു കൂടാതെ അത് നിങ്ങളുടെ കമ്പനിയുമായി സംയോജിപ്പിക്കുക അന്താരാഷ്ട്ര സംയുക്ത സംരംഭങ്ങളാണ് മറ്റൊന്ന് അന്താരാഷ്ട്ര സംയുക്ത സംരംഭങ്ങൾ ലയനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ചെയുന്നു അല്ലെങ്കിൽ ഒരു പൊതു പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഇതൊരു അന്താരാഷ്ട്ര സംയുക്ത സംരംഭമാണ് എന്ന് പറയാം നിങ്ങൾക്ക് തന്ത്രപരമായ സഖ്യങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു കാര്യത്തിനായി നിങ്ങളുടെ ജോലിയുടെ ഒരു വശം ഒരാളുമായി ഒരുമിച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് പങ്കാളിത്തങ്ങൾ ഉണ്ടാകാം കൂടാതെ നിങ്ങൾക്ക് ചർച്ചകൾ നടക്കുന്ന കൺസോർഷ്യ ഉണ്ടായിരിക്കാം നിങ്ങൾക്കറിയാമോ ആശയങ്ങൾ തുറന്നിരിക്കുന്നു കൂടാതെ ആശയ നിർമ്മിതി നടക്കുന്നു കൂടാതെ ആവശ്യാനുസരണം നിങ്ങൾ ഒത്തുചേരും മക്വിലഡോറസ് എന്നത് ഒരു മെക്സിക്കൻ പദമാണ് വിദേശ രക്ഷകർത്താക്കൾക്ക് അനുകൂലമായ പ്രത്യേക സ്വഭാവസവിശേഷതകളുള്ള വിദേശ അനുബന്ധ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക രൂപമാണിത് അതിനാൽ നിങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് എന്ന് കരുതുക വിദേശ രാജ്യങ്ങളിലെ പൌരന്മാരെ നിങ്ങൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കരുത് വിദേശ രാജ്യങ്ങളിലെ പൌരന്മാരെ നിങ്ങളുടെ സ്ഥാപനവുമായി പൊരുത്തപ്പെടുത്തുക നിങ്ങൾ പൊരുത്തപ്പെടുന്ന നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന വഴിയിലൂടെ നിങ്ങൾ ഇത് സുഗമമാക്കുന്നു അതിനാൽ അവരുടെ പുതിയ ക്രമീകരണങ്ങളിൽ അവർക്ക് ഇത് വളരെ സുഖകരമാകാൻ നിങ്ങൾക്ക് ചില വഴികളുണ്ട് അത് കൂടാതെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇതിന് സഹായിക്കുന്ന ചില പ്രത്യേക സവിശേഷതകൾ നിങ്ങൾക്കുണ്ട് ആഗോള ബിസിനസ്സിനായി ബഹുരാഷ്ട്ര സംരംഭങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓർഗനൈസേഷൻ സ്വീകരിക്കുന്ന തന്ത്രം സ്ഥാപനം എങ്ങനെ നടക്കുന്നു എന്നതിനെ ബാധിക്കുന്നു സംഘടനയുടെ ലക്ഷ്യങ്ങൾ ആണ് മറ്റൊന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങൾ സ്വയം സംഘടിപ്പിക്കുന്നത് എന്നതെല്ലാം ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നു നിങ്ങൾക്ക് ലഭ്യമായ സാങ്കേതികവിദ്യ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലഭ്യമായ സാങ്കേതികവിദ്യ എന്നിവ ഒരു മാറ്റമുണ്ടാക്കും ആഗോള ബിസിനസ്സിനായി നിങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതിനെ ആളുകൾ ആളുകളുടെ പശ്ചാത്തലം പരിശീലനം സ്ഥാപനത്തിന്റെ വലുപ്പം മുതലായവ സ്വാധീനിക്കും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യുന്നു ആഗോള ബിസിനസ്സിനായി MNE എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇവിടെ ചില ഘടകങ്ങൾ കൂടി കമ്പനിയുടെ അന്താരാഷ്ട്ര വികസനത്തിന്റെ രൂപങ്ങളും ഘട്ടങ്ങളും നിങ്ങൾ അന്താരാഷ്ട്ര വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ദൃഢമായ തന്ത്രത്തിന് ആവശ്യമായ ക്രോസ് ബോർഡർ കോർഡിനേഷന്റെ അളവ് ആവശ്യമുള്ള സ്റ്റാൻഡേർഡൈസേഷന്റെയും കേന്ദ്രീകരണത്തിന്റെയും അളവ് സ്വീകാര്യമായ അല്ലെങ്കിൽ ആവശ്യമായ പ്രാദേശികവൽക്കരണത്തിന്റെയും വികേന്ദ്രീകരണത്തിന്റെയും അളവ് അതിനാൽ എത്രമാത്രം ഏകോപനം ഉണ്ട് സാമ്പത്തിക പ്രക്രിയയിൽ ആതിഥേയരായ സർക്കാരുകളുടെ പങ്കാളിത്തത്തിന്റെ സ്വഭാവം അവർ എത്രത്തോളം നിയന്ത്രിക്കുന്നു ഏറ്റവും കുറഞ്ഞ ശമ്പളം എന്താണ് എന്ന് അവർ നിങ്ങളോട് പറയുമോ ഇല്ലയോ മുതലായവ എംഎൻഇയുടെ ബിസിനസ് പ്രവർത്തനങ്ങളുടെ വൈവിധ്യവും സങ്കീർണ്ണതയും ആഗോള ബിസിനസ്സിനായി നിങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് അതിനാൽ അന്താരാഷ്ട്ര ഇടപെടലിന്റെ ചില ഘട്ടങ്ങൾ ഇത് ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതിന്റെ ഒരു മൊത്തത്തിലുള്ള വിശകലനം അല്ലെങ്കിൽ പുനരവലോകനം ആണ് അതായത് ഘട്ടം ഒന്ന് നിങ്ങൾക്ക് പ്രാഥമികമായി ഒരു ആഭ്യന്തര വിപണിയുണ്ട് ഘട്ടം രണ്ട് വിദേശ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ വിപണി വിപുലീകരിക്കുക പക്ഷേ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിങ്ങളുടെ ഉൽപ്പാദനം നിലനിർത്തുക മൂന്നാം ഘട്ടം സ്ഥാപനം ബൌദ്ധികമായി അതിന്റെ ചില പ്രവർത്തനങ്ങൾ മാതൃരാജ്യത്തിന് പുറത്തേക്ക് മാറ്റുന്നു കൂടാതെ നാലാം ഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി രാജ്യങ്ങളിൽ അസംബ്ലിയും ഉൽപ്പാദന സൌകര്യവുമുള്ള ഒരു സമ്പൂർണ്ണ ബഹുരാഷ്ട്ര കോർപ്പറേഷനായി നിങ്ങൾ മാറുന്നു നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു ആഗോള തൊഴിൽ നിയമം വ്യാവസായിക ബന്ധങ്ങൾ അന്താരാഷ്ട്ര നൈതികത എന്നിവയുമായി അടുത്ത ക്ലാസിൽ നമ്മൾ തുടരും അതിനാൽ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി നമ്മുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കാണാം